ശരീരഭാഷയെകുറിച്ചുള്ള നമ്മുടെ പ്രോഗ്രാമിന്റെ രണ്ടാം ആഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയുന്നു ഹാപ്റ്റിക്സിനെ സ്പർശനത്തിൻറെ ദൈർഖ്യത്തെക്കുറിച്ചും ശരീരഭാഷ പഠനത്തിൽ ഉൾപെടുത്തേണ്ടതാണ് സ്പർശന വികാരവുമായി ബന്ധപെട്ടത് എന്നർഥം വരുന്ന ഹാപ്ടികോസ് ബന്ധപ്പെട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇത് ശരീരത്തിലെ വിവിധതരം സ്പർശനസംവേദനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു മനുഷ്യസ്പര്ശനത്തിന്റെ ആവശ്യകതയും സമഗ്രമായ ആശയവിനിമയത്തിലെ അതിന്റെ പങ്കിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് വാചികേതര ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ട് സ്പർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചു നാം പഠിക്കുമ്പോൾ സ്പർശനത്തിന്റെ ആവർത്തിയോടൊപ്പം അതിന്റെ രീതിയും മനസിലാക്കേണ്ടതുണ്ട് മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും ബന്ധങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്തുത സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യകത എന്താണെന്നും സ്പർശനത്തിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നു കാരണം സ്പർശങ്ങളെന്നാൽ പ്രവർത്തിമേഖലയിൽ സ്വീകരിക്കുന്ന വിവിധതരം സ്പർശങ്ങൾ ചേർന്നതാണ് ഉദാഹരണത്തിന് ഹസ്തദാനം ചെയ്യുക മറ്റുള്ളവരുടെ കൈകൾ ചേർത്ത് പിടിക്കുക ചില സന്ദർഭങ്ങളിൽ സൌഹൃദ സൂചകമായി ചുംബനങ്ങൾ നൽകുക തോളിൽ തട്ടുക ഇവയെല്ലാം സ്പർശിക്കുന്നവരുടെ വികാരങ്ങളെയും ഉദ്ദേശത്തെയും വാചികേതര സന്ദേശം ആയിട്ട് കൈമാറ്റം ചെയ്യുന്നു അതോടൊപ്പം സ്പർശനമേല്കുന്ന ആളുടെ ഉള്ളിൽ ഇവ നല്ലതും ചീത്തയുമായ വികാരങ്ങൾ ജനിപ്പിക്കുന്നു നല്ല സ്പർശനങ്ങൾ പരിപോഷിപ്പിക്കുന്നു ബന്ധങ്ങളെ ജനിപ്പിക്കുവാനും നിലനിർത്തുവാനും അവയ്ക്കു സാധിക്കുന്നു നല്ല സ്പർശങ്ങൾ ഒരു പരിധി വരെ സ്നേഹവും സ്വാന്തനവും പകർന്നുകൊടുക്കുന്നതിനാൽ അവ പ്രാധാന്യമർഹിക്കുന്നു ഉദാഹരണത്തിന് ഒരു പ്രൊജക്റ്റ് അവതരണം മോശമായി പോയ ശേഷം ടീം ലീഡർ നിങ്ങളുടെ അടുത്തുവന്നു മുതുകിൽ തട്ടി പുഞ്ചിരിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ആശ്വാസം തോന്നുന്നു അതിനാൽ നല്ല സ്പർശം മറ്റുള്ളവരുടെ വികാരങ്ങളെ പരിപോഷിപ്പിക്കുന്നു എന്ന് മനസിലാക്കാം ഇതുപോലെ അശുഭകരമായ സ്പർശനങ്ങൾ ഉത്ക്കണ്ഠ പ്രകോപനം മുതലായ ശുഭകരമല്ലാത്ത വികാരങ്ങളിലേക്കോ ശാരീരികമായ അതിക്രമണങ്ങളിലേക്കോ വഴിയൊരുക്കുന്നു മനുഷ്യന്റെ ഓര്മശക്തിയിൽ സ്പര്ശനത്തിനുള്ള പങ്ക് വലുതാണ് സ്പർശനത്തിന്റെ പ്രാധാന്യത്തെ മറന്നു കളയാൻ സാധ്യമല്ലാത്തതിനാൽ നമുക്ക് പ്രാധാന്യമർഹിക്കുന്ന വ്യക്തികളുടെ സ്പർശനത്തെയും നാം മറക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു മഹാനായ നേതാവിന്റെ സ്പർശനത്തെയോ അല്ലെങ്കിലൊരു മത നേതാവിന്റെ ഹസ്തദാനത്തെയോ മഹത്വ്യക്തിയുടെ കരസ്പര്ശത്താൽ അനുഗ്രഹീതനായി തോന്നിയാലോ ആ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ നാം കൊണ്ടു നടക്കുന്നത് അതിനാൽ മനുഷ്യ സ്പർശനത്തിനു കർശനമായ തൊഴിലിടങ്ങളിൽ പോലും നല്ലതും ചീത്തയുമായ വികാരങ്ങളെ സംവേദനം ചെയ്യുവാനുള്ള കഴിവുണ്ട് സ്പർശനം അഞ്ചു തരം അർത്ഥങ്ങൾ സംവേദനം ചെയ്യുന്നു എന്ന് നിർദ്ദേശിച്ച ജോൺസ് എന്നിവയാണത്

നല്ല സ്പർശങ്ങളുടെ ഭാഗമായി പിന്തുണ അഭിനന്ദനം അംഗീകാരം സ്നേഹം സ്വാന്ത്വനം എന്നിവയെല്ലാം പ്രകടിപ്പിക്കപ്പെടുന്നു സ്പർശനങ്ങൾ സ്നേഹഹപൂർവ്വമായതോ വൈര്യം നിറഞ്ഞതോ ആകാം അല്ലെങ്കിൽ സാഹചര്യത്തെ ഗൌരവകരമായി എടുക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന വിനോദപരമായ സ്പർശനങ്ങളുമാകാം സാഹചര്യത്തെ നിയന്ത്രിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും നിയന്ത്രണവിധേയമാക്കാനും സ്പർശനത്തെ ഉപയോഗിക്കുന്നു മറ്റുള്ളവർക്ക് മുകളിലുള്ള അധിപത്യത്തെയും പദവിയേയും സംവേദനം ചെയ്യാനും സ്പർശനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു ആചാരപരമായ സ്പർശനങ്ങളും നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് അഭിവാദ്യ സൂചകമായുള്ള ഹസ്തദാനവും പ്രവർത്തിമേഖലയിൽനിന്നു മടങ്ങുമ്പോഴുള്ള ആലിംഗനവും ആചാരപരമായ സ്പർശനങ്ങളായി കണക്കാക്കാം ചില സമയങ്ങളിൽ ഉദ്യോഗപരമായ ആവശ്യകത ആയതിനാൽ ഇത് നിർബന്ധിത സ്പർശങ്ങളാകുന്നു ഒരു ഡോക്ടറിന് രോഗിയെ സ്പർശിക്കേണ്ടി വരുന്നു ഒരു വ്യക്തിയെ കാറിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുന്നു ഈ സ്പർശങ്ങൾ കർത്തവ്യത്തിന്റെ നിർവ്വഹണമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനഃപൂർവ്വമല്ലാതെയും ചിലപ്പോൾ നാം മറ്റുള്ളവരെ സ്പർശിക്കാൻ ഇടയാകുന്നു ഉദാഹരണത്തിന് നാം തിരക്കുള്ള ബസിലോ ട്രെയിനിലോ യാത്ര ചെയ്യുകയോ തിരക്കുള്ള ലിഫ്റ്റിൽ കയറുകയോ ചെയ്താൽ സ്പർശനം ഒഴിവാക്കാനാവില്ല ചില ഔദ്യോഗിക സാഹചര്യങ്ങളിൽ പ്രത്യേക ശരീര ഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് സാംസ്കാരികമായി വിലക്കപ്പെട്ടിരിക്കുന്നു അത്തരം വിലക്കുകൾക്കും നാം ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തെ ഔപചാരികമായ സ്പർശനം ഹസ്തദാനമാണ് അവ തികച്ചും സാധാരണമാണ് ഔദ്യോഗികമായ അഭിവാദന രീതിയിലെ സുപ്രധാന ഘടകമാണത് നിത്യ ജീവിതത്തിലെ ലളിതമായൊരു ആശയവിനിമയരീതിയാണത് എന്നാൽ ഇത്തരമൊരു ഹസ്തദാനത്തിൽ വിവിധതരം സന്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നത് സുപ്രധാനമാണ് ഹസ്തദാനം പ്ര്യത്യേക രീതിയിലുള്ള സ്പർശനമായതിനാൽ ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വികാരങ്ങളെ വിസ്മരിക്കാനാവില്ല ചിലപ്പോൾ ഒരു പ്ര്യത്യേക തരം ചൈതന്യം കൈമാറ്റം ചെയ്യപ്പെടുന്നു മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ചെലുത്താനുള്ള ആഗ്രഹവും അല്ലെങ്കിൽ മറ്റൊരാളോട് സംവദിക്കാനുള്ള വിമുഖതയും പ്രകടമാക്കാം ഹസ്തദാനത്തിന്റെ ഉത്ഭവം മനുഷ്യന്റെ അതിജീവന വാസനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് രസകരമായ കാര്യം അലൻ പീസിന്റെ പ്രസ്താവനയിൽ ഹസ്തദാനമെന്നത് ഗുഹാമനുഷ്യരുടെ യുഗത്തിന്റെ ശേഷിപ്പുകളാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഗുഹാമനുഷ്യരോ അല്ലെങ്കിൽ സംസ്കാരം ഉടലെടുക്കുന്നതിന്റെ ആദ്യ ഘട്ടങ്ങളിലോ മനുഷ്യർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ തങ്ങൾ ആക്രമണത്തിനായി ആയുധങ്ങൾ ഒന്നും കയ്യിലേന്തിയിട്ടില്ല എന്നതിന്റെ അടയാളമായി കൈപ്പത്തികൾ വിടർത്തി ഇരുകൈകളും വായുവിൽ ഉയർത്തി കാണിക്കുമായിരുന്നു സാംസ്കാരിക പുരോഗതിയനുസരിച്ചു ഇത് പിന്നീട് കൈകൾ ഹൃദയത്തോട് ചേർക്കുന്ന റോമൻ അഭിവാദനരീതിയായി തന്റെ കൃതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അനുസരിച്ചു ഹസ്തദാനമെന്ന പാശ്ചാത്യ രീതിയുടെ ഉത്ഭവം ഇരു വ്യക്തികളും തങ്ങളുടെ കൈകളിൽ ആയുധമേന്തിയിട്ടില്ല എന്നു സൂചിപ്പിക്കാനാവാം എന്നതാണ് പ്രാരംഭത്തിൽ വിശ്വാസത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുവാനാണ് ഹസ്തദാനം ആരംഭിച്ചത് ഒരു തരത്തിലുള്ള സൌഹൃദവലയം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ വൈകാതെ ഇത് വ്യക്തികൾ തമ്മിലുള്ള സമത്വത്തിന്റെ അടയാളമായി മാറി അത് വിവിധതരം ക്രമീകരണങ്ങളുടെയും ഉടമ്പടികളുടെയും ചിഹ്നമായി മാറി എന്നാലിന്ന് ഇത് ദിവസത്തിൽ ആദ്യമായി കണ്ടുമുട്ടുമ്പോളുള്ള ലളിതമായൊരു അഭിവാദന രീതിയായി മാറി ഇതിന്റെ യഥാർത്ഥ അർഥം ഇന്നും കണ്ടെത്താൻ കഴിയും ഒരു വ്യക്തിയുമായി ഹസ്തദാനം ചെയ്യാനുള്ള വിമുഖത ആ വ്യകതിയുടെ വിരോധത്തിന്റെ അടയാളമായി നിർവചിക്കപ്പെടുന്നു ഉത്ഭവത്തെ മാറ്റി നിർത്തിയാൽ ഹസ്തദാനം ആധുനിക യുഗത്തിന്റെ അഭിവാജ്യ ഘടകമാണ് വിവിധ വംശത്തിലും സംസ്കാരത്തിലും പദവികളിലും ചുറ്റുപാടുകളിലുമുള്ള മനുഷ്യർ ഹസ്തദാനം ഉപയോഗിക്കുന്നു വിവിധ ലിംഗഭേദത്തിലുള്ളവരുമായുള്ള ഹസ്തദാനത്തിനു സമൂഹത്തിൽ പലരും പാരമ്പരാഗരതമായ രീതികൾ ഇന്നും തുടരുന്നു ഉദാഹരണത്തിന് ഹസ്തദാനത്തിൽ ഏർപ്പെടുമ്പോൾ നാം ഔന്നത്യബോധമുള്ളവരാകുന്നു അതിനാൽ ഉയർന്ന തട്ടിലുള്ളവർ കരം വാഗ്ദാനം ചെയ്യുന്നു മിക്ക സമുദായങ്ങളിലും സ്ത്രീകൾ കരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് അനുയോജ്യമായ രീതിയായി കരുതുന്നത് പുരുഷന്മാർ സ്ത്രീകളുമായുള്ള ഹസ്തദാനത്തിന് മുൻകൈ എടുക്കാറില്ല മറ്റു ചില സംസ്കാരമനുസരിച് സ്ത്രീകൾ ഹസ്തദാനത്തിലേർപ്പെടുന്നതിനു പകരമായി മറ്റു പാരമ്പരാഗത അഭിവാദന രീതികളാണ് ഉപയോഗിക്കുന്നത് അടുത്ത സ്ലൈഡുകളിൽ വാചികേതര ആശയവിനിമയത്തിന്റെ ഘടകമായി ഹസ്തദാനത്തിന്റെ വിവിധ വ്യാഖ്യാനങ്ങളെ നിരീക്ഷിക്കാം ഹസ്തദാനത്തിൽ ഏർപ്പെടുമ്പോൾ സംവേദനം ചെയ്യപ്പെടുന്ന വികാരങ്ങളും പ്രാധാന്യമർഹിക്കുന്നു വധിക്കപ്പെട്ട മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എ ഫ് കെന്നഡി ഏറ്റവും പര്യാപ്തമായ ഹസ്തദാനം കണ്ടെത്താൻ ഒരു പഠനം നയിച്ചു അത് കളങ്കമറ്റ ചൈതന്യത്തെ സംവേദനം ചെയ്യാം അത് അരക്ഷിതാവസ്ഥയെ സൂചിപ്പിക്കാം കൂടാതെ ഹസ്തദാനം പെട്ടെന്ന് പിൻവലിക്കാനുള്ള ത്വര അഹങ്കാരത്തെ സൂചിപ്പിക്കാം വിവിധതരം ഹസ്തദാനത്തെക്കുറിച് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ആദ്യം മൂന്നു തരം ഹസ്തദാനത്തെയാണ് നാം പഠിക്കുന്നത് ഒരു ഔദ്യോഗിക പശ്ചാത്തലത്തിൽ അഭിവാദ്യം ചെയ്യുമ്പോൾ ആധിപത്യത്തെ അഭിവൃദ്ധിയെ അല്ലെങ്കിൽ സമത്വത്തെ കൈമാറ്റം ചെയ്യുന്ന ഹസ്തദാനങ്ങളാണവ ഇവിടെ ചേർത്തിരിക്കുന്ന ചിത്രം അധിപത്യത്തോടെയുള്ള ഹസ്തദാനത്തെ പ്രധിനിധികരിക്കുന്നു അനേകം വ്യക്തികൾ ഇതേക്കുറിച്ചു എഴുതാനാരംഭിച്ചതോടെയാണ് അധിപത്യത്തോടെയുള്ള ഹസ്തദാനം ആധികാരികമായി ശ്രദ്ധയാകർഷിക്കുന്നത് കൈകൾ വാഗ്ദാനം ചെയുന്ന വ്യക്തി പ്രത്യേക ദിശയിലേക്ക് കൈപ്പത്തി പിടിച്ചിരിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള ഹസ്തദാനം ആധിപത്യത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഹസ്തദാനം സ്വീകരിക്കേണ്ട വ്യക്തി തുറന്ന വിധത്തിൽ കൈകൾ വാഗ്ദാനം ചെയ്യേണ്ടി വരുന്നു ഇത് മറ്റുള്ളവരിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ അധിപത്യത്തോടെയുള്ള ഹസ്തദാനരീതി സാധാരണയായി ഉയർന്ന പദവിയിലുള്ളവരാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആധിപത്യം എളുപ്പത്തിൽ വന്നുചേരുന്നവരുടെയോ ചെറുപ്പകാരുടെ ഇടയിലോ ആണ് ഔദ്യോഗിക സാഹചര്യങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്നും ഇത്തരത്തിലൊരു ഹസ്തദാനം വാഗ്ദാനം ചെയ്യപ്പെട്ടാൽ അത് സുഖകരമാവില്ല പകരം നിങ്ങളത് തരണം ചെയ്യാൻ ആഗ്രഹിക്കും ഇത്തരം ഹസ്തദാനത്തെ തരണം ചെയ്യാനും ഇത് ഒരു സമത്വത്തെ പ്രകടമാക്കുന്ന ഹസ്തദാനമായി മാറ്റാനുമുള്ള രസകരമായ മാർഗം നിങ്ങളുടെ ഇടതു കാല്പാദം മുന്നിലേക്ക് വെയ്ക്കുക എന്നതാണ് അതോടെ നിങ്ങളുടെ ശരീരം ചെറുതായി ചായുകയും മറുവ്യക്തിക്ക് പിന്നിലേക്ക് മാറുകയും ചെയ്യേണ്ടി വരുന്നു ഇത് നിങ്ങളുടെ ഹാൻഡ്ബാഗ് ചലിപ്പിക്കുവാനും അല്പം സമമായ ചുവടുകളിൽ നിന്ന് സംഭാഷണം ആരംഭിക്കുവാനും അവസരമൊരുക്കുന്നു ഇതിനു നേർ വിപരീതമാണ് വിധേയത്വമുള്ള ഹസ്തദാനം എന്ന ആശയം അവിടെ നിങ്ങൾ കൈപ്പത്തി മുകളിലേക്ക് പിടിച്ച് കൈ വാഗ്ദാനം ചെയ്യുന്നു ഇത് മറ്റൊരാൾക്കു ഉയർന്ന സ്ഥാനം നൽകി കൊണ്ട് അയാൾ ആ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ല എന്ന് സൂചിപ്പിക്കുന്നു ചില സമയങ്ങളിൽ വാക്കുകൾക്കുമപ്പുറം ശരീരഭാഷ കൊണ്ട് ക്ഷമാപണം നടത്തേണ്ട സാഹചര്യത്തിൽ മനഃപൂർവം നാം ഈ രീതി ഉപയോഗിക്കുന്നു സാധാരണയായി ഇത്തരം വിധേയത്വമുള്ള ഹസ്തദാനം ഉതകുന്ന ഒരു മനോഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളും കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു കൈകൾ സൂക്ഷ്മമമായി ഉപയോഗിക്കുന്ന ജോലികളിൽ ഏർപെട്ടിരിക്കുന്നവർ ഉദാഹരണത്തിന് ശസ്ത്രക്രിയ വിദഗ്ദ്ധൻ പിയാനോ വായിക്കുന്നവർ കലാകാരൻമാർ എന്നിവരുടെ സ്പർശനം മൂല്യമുള്ളതായതിനാൽ അവർ ഹസ്തദാനം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ അവർ ഹസ്തദാനത്തിനു വിമുഖത പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ബലഹീനമായ ഹസ്തദാനം നൽകുകയോ വിധേയത്വമുള്ള ഹസ്തദാനം നൽകുകയോ ചെയ്യുന്നു അതുകൊണ്ട് ഹസ്തദാനത്തിന്റെ അർഥം വ്യാഖ്യാനം ചെയ്യാൻ ശരീര ചലനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന അടയാളങ്ങളുടെ കൂട്ടത്തെ നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഔദ്യോഗിക പശ്ചാത്തലത്തിൽ സമത്വമുള്ള ഹസ്തദാനമാണ് ഏറ്റവും അനുയോജ്യം കാരണം തുല്യതയുടെ അടിസ്ഥാനത്തിൽ രണ്ടു വ്യക്തികൾ കണ്ടുമുട്ടുന്നു തുല്യമായ അധിപത്യമുള്ളവരോ അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനാഗ്രഹിക്കുന്നവരോ ഹസ്തദാനത്തിന് ശ്രമിക്കുമ്പോൾ ഒരു പ്രതീകാത്മകമായ പോരാട്ടം സംഭവിക്കുന്നു ഒരു വ്യക്തി ഇത്തരത്തിൽ ഹസ്തം വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങളതിനെ പിന്നിലേക്ക് നീക്കാൻ ശ്രമിക്കുന്നു ഇരു കൈകളും ഇതേ രീതിയിൽ ആണെങ്കിൽ അത് ഒരു സമത്വമുള്ള ഹസ്തദാനമായി കണക്കാക്കുന്നു കാരണം കൈപ്പത്തികൾ നേരെ നിർത്തുകയും കുത്തനെ പുറത്തേക്ക് പിടിക്കുകയും ചെയ്യുന്നു സമത്വത്തെയും പരസ്പര ബഹുമാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നതിനാൽ ഇതാണ് അനുയോജ്യമായൊരു ബിസിനസ്സ് ഹസ്തദാനമായി കണക്കാക്കുന്നത് ഒരു ഉറച്ച ഹസ്തദാനം സമത്വമുള്ള ഒരു ഹസ്തദാനത്തിന്റെ തുടർച്ചയായി കണക്കാക്കാം ഉറച്ച രീതിയിൽ ഹസ്തദാനം ചെയ്യുന്ന ആളുടെ കേന്ദ്രികരിച്ച ഊർജ്ജത്തെയും ആത്മവിശ്വാസത്തെയും ഇത് സംവേദനം ചെയ്യുന്നു ബിസിനസ്സ് ശൃംഖലയിലോ ജോലിക്കു വേണ്ടിയുള്ള അഭിമുഖത്തിൽ ഒരാളെ കണ്ടുമുട്ടുമ്പോളോ സന്തുഷ്ടനും നിശ്ചയദാർട്യമുള്ളവനും ആയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോളോ ആണ് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒരു പുതിയ ബന്ധം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉറച്ച ഹസ്തദാനം നിങ്ങളുടെ വാക്കുകൾക്ക് മൂല്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അതുകൊണ്ടു തന്നെ ഉറച്ച ഹസ്തദാനം ഒരവസരം സൃഷ്ടിക്കുവാനോ ബിസിനസിനുള്ള അവസരം ലഭിക്കുവാനോ അല്ലെങ്കിൽ ഔദ്യോഗിക പശ്ചാത്തലത്തിലെ അനുബന്ധ വികാരങ്ങളെ സംവേദനം ചെയ്യുവാനോ ഉപയോഗിക്കുന്നു ഒരു വ്യക്തിയുടെ ഇരു കൈകളിലേക്കും മറ്റൊരു വ്യക്തിയുടെ കൈപ്പത്തിയെ ചേർത്തുപിടിച്ചാലത് ഇരട്ട ഹസ്തദാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഹസ്തദാനമാണെന്ന് മനസിലാക്കാം ആ സമയം നിങ്ങളുടെ ഇരു കൈകളും മറു വ്യക്തിക്ക് കൈയ്യുറപോലെ അനുഭവപ്പെടുന്നു ഇത്തരത്തിലുള്ള ഹസ്തദാനം പലതരം വികാരങ്ങൾ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു നിശ്ചിത അളവിലുള്ള സൌഹൃദവും അനൌപചാരികതയും ആ രണ്ടു വ്യക്തികൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഇത് വ്യക്തമാകുന്നു മറ്റു വ്യക്തിയോടുണ്ടായിരുന്ന ആത്മാർത്ഥതയേയും സത്യസന്ധതയെയും ആഴമുള്ള അനുകമ്പയേയും ഇത് സൂചിപ്പിക്കുന്നു ഇത്തരം ഹസ്തദാനങ്ങളിൽ കൂടുതലായ ശരീരസമ്പർക്കം ഉൾപ്പെടുന്നു വലതുകൈയ്യെ തടയുകയും അതോടൊപ്പം സംസാരിക്കുന്ന വ്യക്തിയുടെ മേൽ നിയന്ത്രങ്ങൾ ചെലുത്താനും ഇത് അനുവദിക്കുന്നു കാരണം പരമ്പരാഗതമായി ഇത്തരം ഹസ്തദാനം നിലനിൽക്കുന്ന ആത്മാര്ഥതയോടും സത്യസന്ധതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ മേഖലയിലും കോർപ്പറേറ്റ് മേഖലയിലും ഇത്തരത്തിലുള്ള ഹസ്തദാനമാണ് സ്വീകാര്യം അതുകൊണ്ടു തന്നെ ഇത് വിശ്വാസ വഞ്ചനയോടും ബന്ധപ്പെട്ടിരിക്കുന്നു കൈയ്യുറ ഹസ്തദാനത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഹസ്തദാനമായി അറിയപ്പെടുന്നു കാരണം പൊതുപ്രവർത്തകർ ആയതിനാൽ അവർക്ക് വ്യക്തികളോടുള്ള പെരുമാറ്റത്തിൽ ഒരു നിശ്ചിത സൌഹാർദ്ദം കാണിക്കേണ്ടി വരുന്നു പല ആധികാരിക ചിത്രങ്ങളിലൂടെ ഇത് അവർത്തിക്കപെടുന്നു വ്യാജ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു ഹസ്തദാനം നൽകുമ്പോൾ അവരുടെ യഥാർത്ഥ ഉദേശത്തെക്കുറിച്ചു നാം ബോധവാന്മാരാകുന്നു ഡെഡ് ഫിഷ് ഹസ്തദാനം ക്ഷണിക്കപ്പെടാത്ത ഹസ്തദാനമാണ് നിങ്ങളുടെ കൈകൾ തണുത്തതോ ഈർപ്പമുള്ളതോ ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ സന്തുഷ്ടനല്ല എന്ന് കണക്കാക്കാം ദുർബലവും ചൈതന്യമില്ലാത്തതുമായ ഒരു ആശയവിനിമയ മാർഗമായതിനാൽ ഇത് പൊതുവെ സ്വീകാര്യമല്ലാത്ത ഹസ്തദാന രീതിയാണ് ഇത്തരം ഹസ്തദാനം ഉള്ളവർ നിർഭാഗ്യവശാൽ ഇതേക്കുറിച്ചു ബോധവാന്മാരല്ല അതുകൊണ്ട് യുവാക്കൾ സുഹൃത്തുക്കളുമായി ഹസ്തദാനത്തിൽ ഏർപ്പെട്ട് അതിലൂടെ അവർക്ക് ലഭിച്ച വികാരങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചറിയുന്നത് നല്ലതാണ് അടുത്തത് വിരൽമുട്ടുകൾ ഞെരിക്കുന്ന 'നക്ക്ൾ ഗ്രൈൻഡർ' ഹസ്തദാനമാണ് ഇത് പരുക്കൻ സ്വാഭാവമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവർ ഈ കർക്കശ്യത്തെ അവരുടെ പെരുമാറ്റത്തിലും കാണിക്കുന്നു മറ്റൊരാളുടെ കൈപ്പത്തിയെ നിങ്ങളുടെ കൈകൾക്കുള്ളിൽ അമർത്തുന്നതാണിത് ഒരു അനൌദ്യോഗിക ഹസ്തദാനമായതിനാൽ ഔദ്യോഗിക സന്ദർഭങ്ങളിൽ ഇത് ഒഴിവാക്കപ്പെടണം ഇത്തരം അമർത്തുന്ന ഹസ്തദാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഹസ്തദാനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയുടെ കൈകൾ ഉളവാക്കുന്ന മർദ്ദവുമായി ബന്ധമുണ്ട് മർദ്ദത്തിന് ആസ്പദമായി ആധിപത്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹവും എതിരാളിയെ കീഴടക്കാനുള്ള ആഗ്രഹവും സംവേദനം ചെയ്യുന്നുണ്ട് കാരണം ഈ സന്ദർഭത്തിൽ പ്രകൃത്യാലുള്ള ഭയമോ ആശങ്കയോ കാണപ്പെടുന്നു ഇത്തരം ഹസ്തദാനത്തെക്കുറിച്ചു കൂടുതൽ മനസിലാക്കാൻ സാഹചര്യത്തെയും മറ്റു ശരീര ചലന സൂചനകളെയും നിരീക്ഷിക്കേണ്ടതുണ്ട് അതേസമയം കൈകൾ ദൃഢമാക്കിയുള്ള ഹസ്തദാനം എന്നും പറയുന്നു ഒരു വ്യക്തി കൈകൾ ദൃഢമായി മുഴുവനായും നീട്ടി പിടിച്ചു നിങ്ങളുമായി ഹസ്തദാനത്തിനു ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ സ്വകാര്യവലയത്തിലേക്ക് അദ്ദേഹത്തെ ഉൾകൊള്ളിക്കുവാൻ നിങ്ങൾ നിർബന്ധിതനാകുന്നു രണ്ടു സന്ദർഭങ്ങളിലും ഹസ്തദാനം സ്വീകരിക്കുന്ന വ്യക്തി ആയാലും വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ദൃഢമായി കൈകൾ നീട്ടുന്നത് ദൃഢമനോഭാവത്തെയും സൌഹൃദമില്ലായ്മയെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ടു തന്നെ ഈ രീതി ഔദ്യോഗിക സന്ദർഭങ്ങളിൽ ഹൃദ്യമായി കരുതപെടുന്നില്ല ഈ പ്രസ്തുത ചിത്രത്തിൽ കാണുന്നത് വിരൽത്തുമ്പു പിടിച്ചുള്ള ഹസ്തദാനമാണ് ഹസ്തദാനം വാഗ്ദാനം ചെയ്യുന്ന ആൾ ദൃഢമായി കൈകൾ നീട്ടി സ്വീകരിക്കുന്ന വ്യക്തിയുടെ നീട്ടിയ വിരൽത്തുമ്പുകളിൽ മാത്രം സ്പർശിക്കുമ്പോഴാണ് ഈ ഹസ്തദാനം സംഭവിക്കുന്നത് ഇത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഒരു നിശ്ചിത അകലം പാലിക്കുവാൻ സഹായികമാവുന്നു ഇത് പല വിധത്തിൽ സന്ദർഭത്തിന്റെ ദുർബലതയെ വെളിവാക്കുന്നു അതോടൊപ്പം ഒരു വ്യക്തിയുടെ സാമൂഹീകസ്ഥാനവും ശുഭകരമല്ലാത്ത രീതിയിൽ സംവേദിക്കപ്പെടുന്നു വ്യക്തിയുടെ ആത്മവിശ്വാസക്കുറവിനെയും മറ്റൊരു വ്യക്തിയുമായി അടുക്കാനുള്ള വിമുഖതയെയും ഇത് പ്രകടമാക്കുന്നു ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ സാമൂഹിക നിലവാരത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്ന് ആ വ്യക്തിയുമായി ഹസ്തദാനത്തിലേർപ്പെടാതിരിക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തപ്പെടാം അവസാനമായി ഈ ഹസ്തദാനത്തെ രാജ്ഞിയുടെ ഹസ്തദാനമെന്നും വിളിക്കപ്പെടുന്നു കാരണം ഈ രീതി ഉപയോഗിക്കുന്ന വ്യക്തികൾ സ്വയം ഉന്നതനാണെന്ന് ധരിക്കുന്നു അർദ്ധ ഔപചാരികമായ സന്ദർഭങ്ങളിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ഹസ്തദാനം സർവ്വസാധാരണമാണ് അർദ്ധ ഔദ്യോഗീകമായ സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കാണ് പരുഷന്മാരെക്കാൾ സ്വകാര്യത ആവശ്യം എന്നാൽ ഔദ്യോഗികമായ സന്ദർഭങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത്തരം ഹസ്തദാനം ഒഴിവാക്കുന്നതാണ് നല്ലത് ഹസ്തദാനത്തെ നിർണയിക്കുന്നത് അതുൾപ്പെടുന്ന സംസ്കാരത്തിന്റെ സ്വഭാവം കൂടിയാണ് വിവിധ സംസ്കാരങ്ങളിലെ പല തരത്തിലുള്ള ഹസ്തദാനത്തെക്കുറിച്ചുള്ള ഈ പഠനം ആരംഭിച്ചത് ജോ നവർറോ രീതികളും ഇതിലുൾപ്പെടുന്നു തോളിലോ കൈയിലോ മുതുകിലോ തട്ടുന്നത് യോജിപ്പ് പ്രകടിപ്പിക്കാനോ അനുബന്ധമായിട്ടോ അനുരഞ്ജനത്തിന്റെ ആംഗ്യമായിട്ടോ കരുതുന്നു സൌഹാർദ്ദത്തിന്റെ ചിഹ്നമായി തോളിൽ കൈയിടുന്നതും കൈ കോർത്തു പിടിക്കുന്നതും കൈകൾ ചേർക്കുന്നതും ആലിംഗനവും ഉദാഹരണങ്ങളാണ് അടുത്ത ഭാഗത്തിൽ ഇവയെ കുറിച്ചു ചർച്ച ചെയ്യുന്നതാണ് പാശ്ചാത്യ സമൂഹങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റു പല അഭിവാദനരീതികളെയും നമുക്ക് പരിചയപ്പെടാം പാശ്ചാത്യ വിദ്യാഭ്യാസരീതിയെ മാതൃകയാക്കുന്ന സമൂഹങ്ങളിൽ ഹസ്തദാനം അഭിവാജ്യമാണ് ചില പരമ്പരാഗത സമൂഹങ്ങൾ മറ്റുപല അഭിവാദനരീതികളും സ്വീകരിച്ചു നിരന്തരമായി ഉപയോഗിക്കുന്നു മിക്ക പശ്ചാത്യരാജ്യങ്ങളിലും ചുംബനവും ആലിംഗനവും ഉചിതമായ അഭിവാദനരീതിയായി കണക്കാക്കുന്നു എന്നാൽ ചില രാജ്യങ്ങളിലത് കീഴ്വഴക്കമായി അംഗീകരിക്കപ്പെടുന്നു ഉദാഹരണത്തിന് സൌദി അറേബ്യയിൽ ഹസ്തദാനത്തോടൊപ്പം ഒരു മൃദുചുംബനവും നൽകാറുണ്ട് പുരുഷന്മാർക്കുപോലും ഹസ്തദാനത്തിനു ശേഷം ഇരുകവിളുകളിലുമുള്ള ഈ ചുംബനം സ്വീകാര്യമാണ് റഷ്യൻ രാജ്യങ്ങളിൽ ഗാഢമായ ആലിംഗനങ്ങൾ വളരെ ജനപ്രിയമാണ് ആലിംഗനവും ശേഷമുള്ള ഹസ്തദാനവും കൂട്ടായ്മയെയും സൌഹാർദ്ദത്തെയും സൂചിപ്പിക്കുന്നു റഷ്യയിൽ ഇവ പ്രചാരത്തിലുണ്ടെങ്കിലും ഫിൻലൻഡിൽ ഇത് സ്വീകാര്യമല്ല അതുകൊണ്ടുതന്നെ ഫിൻലൻഡുകാർ ഔപചാരികമായൊരു ഹസ്തദാനമല്ലാതെ അപരിചിതർക്ക് ആലിംഗനമോ ചുംബനമോ നൽകാറില്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ളവർ ആലിംഗനത്തിനുശേഷം വളരെ അടുത്ത ബന്ധമുള്ളവർ തമ്മിൽ മുതുകിൽ തടവുന്നു അർദ്ധ ഔദ്യോഗിക സന്ദർഭങ്ങളിൽ ഫ്രാൻസിലെ പൌരന്മാർ ആലിംഗനത്തിനു ശേഷം ഇരുവട്ടം ചുംബിക്കുന്നത് അരോചകമായി കരുതുന്നില്ല ന്യൂസിലൻഡിന്റെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന രീതിയാണ് ഹോങ്കി മുദ്രകളാണ് അതുകൊണ്ടു തന്നെ അവരുടെ സംസ്കാരത്തിൽ പാശ്ചാത്യരീതിയിൽ ചുംബനം നൽകി അഭിവാദ്യം ചെയ്യുന്ന രീതി സാധാരണയാണ് ന്യൂസിലൻഡിലെ ആചാരരീതികളിൽ ഇത് ഇന്നും പ്രവർത്തികമാക്കുന്നു അതായത് ഹസ്തദാനമെന്നാൽ പ്രത്യേകമായൊരു സ്പർശനരീതിയും അതോടൊപ്പം പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള അഭിവാദനരീതിയുമാണെന്ന് നാം പഠിച്ചു അത് പരോക്ഷമായി പലതരം മനോഭാവങ്ങളെയും വികാരങ്ങളെയും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു സാംസ്കാരിക വ്യത്യാസങ്ങളിലൂന്നി മറ്റു പലതരം അഭിവാദനരീതികളും ആളുകൾ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോ വിവിധ ചലച്ചിത്രങ്ങളിൽനിന്നുള്ള പലതരം ഹസ്തദാനങ്ങൾ കാണിച്ചുതരുന്നു